കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനം III എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ 7 ലാണ് ഇതിൽ സർഫസ് മോഡലുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ച് പഠിക്കുകയും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ചുള്ള അവലോകനത്തെക്കുറിച്ച് കുറച്ച് പഠിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ സർഫസ് നിർമ്മാണ സാങ്കേതികതകളെക്കുറിച്ച് നമ്മൾ പഠിക്കും ഈ സർഫസ് നിർമ്മാണ സാങ്കേതികതകളിൽ എല്ലാം നമ്മൾ പ്രധാനമായും ക്യൂബിക് പോളിനോമിയലുകളെ ബേസിസ് ഫംഗ്ഷൻസ് ആയി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് യു 1 യു 2 യു 3 എന്നിങ്ങനെയുള്ള ഡാറ്റ പോയിന്റുകൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു കർവ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും അത് ഒരു ക്യൂബിക് റിലേഷൻ തൃപ്തിപ്പെടുത്തുന്നു അവിടെ സി 0 സി 1 സി 2 സി 3 കോയഫിഷൻസും യു ഒരു പാരാമീറ്ററുമാണ് ഇത് പോലെ പറയാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് എന്താണ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റുകൾ വ്യത്യസ്ത എക്സ് വൈ ഇസഡ് കോർഡിനേറ്റുകൾ നമ്മൾ പ്ലഗ് ചെയ്യാൻ പോകുന്നു അതിനാൽ നമ്മൾ ഒരു പാരാമീറ്റർ കർവ് നേടുന്ന അവസ്ഥയിലായിരിക്കും ഇവിടെ ഈ സി 0 സി 1 സി 2 സി 3 അടിസ്ഥാനപരമായി ആ പോളിനോമിയൽ കർവിന്റെ വെയിറ്റ് ഫംഗ്ഷനുകളെ പ്രതിനിധീകരിക്കുന്നു അവ 1 1 1 1 തരം അല്ലെങ്കിൽ 1 0 1 0 തരത്തിലുള്ള അല്ലെങ്കിൽ 1 0 1 ആകാം അതിനാൽ ഈ തൂക്കങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം കാണിച്ചതിനാൽ ഒരു നല്ല കർവ് ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്നു ഒരിക്കൽ നമ്മൾ ഈ ക്യൂബിക് പോളിനോമിയലുകൾ നിർമ്മിച്ചുകഴിഞ്ഞാൽ സർഫസ്കൾ നിർമ്മിക്കുന്നതിന് സമാന സാങ്കേതികത പ്രയോഗിക്കും ആദ്യത്തേത് ഹെർമൈറ്റ് ബികുബിക് പ്രതലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പോയിന്റുകൾക്കിടയിൽ ഒരു കർവ് നിർമ്മിക്കുക എന്നതാണ് ആ പോയിന്റുകൾനമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രത്യേക കർവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പോയിന്റ് പി 0 പി 1 ഇവ ആ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും എക്സ് വൈ കോർഡിനേറ്റുകളാണെന്ന് നമുക്കറിയാം നമ്മൾക്ക് ആ പോയിന്റിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് നമ്മൾക്ക് പി 1 നെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് അതുപോലെ തന്നെ പി 0 പ്രൈമിനെ പ്രതിനിധീകരിക്കുന്ന പി 0 ലെ ടാൻജെന്റിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ട് അതുപോലെ പി 1 ലെ ടാൻജെന്റ് ഇതിനെ പി 1 പ്രൈം എന്ന് വിളിക്കുന്നു നമ്മൾക്ക് ഈ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ ടാൻജെന്റ് വിവരങ്ങളുടെയും പോയിന്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ദിശയിലുള്ള ഒരു കർവ് സുഗമമായ ഒരു കർവ് അതിലൂടെ കടന്നുപോകുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹെർമൈറ്റ് കർവുകൾ എന്ന് വിളിക്കുന്നു അവ ഒരു പ്രത്യേക റിലേഷനേ തൃപ്തിപ്പെടുത്തുന്നു അവിടെ ആ കർവിലെ ഏതെങ്കിലും പോയിന്റ് പി നിങ്ങളുടെ പി ഈ റിലേഷനേ തൃപ്തിപ്പെടുത്തും ഹെർമൈറ്റ് കർവ് നമ്മൾ സർഫസിൽ പോലും കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനാൽ ആ സർഫസിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും ഹെർമൈറ്റ് കർവ് നിങ്ങൾ തിരഞ്ഞെടുക്കുക യു വി വിവരങ്ങൾ ഉള്ള ആ പോയിൻ്റ് തിരഞ്ഞെടുക്കുക അവിടെ നമ്മൾക്ക് പാരാമെട്രിക് വ്യതിയാനം ഉണ്ട് നമ്മളുടെ പക്കലുള്ള പോയിന്റുകളും ടാൻജൻ്റ് വിവരങ്ങളും അടിസ്ഥാനമാക്കി സർഫസിൽ യു വി യുടെ ദിശയിലുള്ള പോയിന്റ് ഈ റിലേഷനേ തൃപ്തിപ്പെടുത്തണം നമ്മൾ അത് നിർമ്മിക്കുമ്പോൾ തൂക്കവും മറ്റ് കാര്യങ്ങളും പോലുള്ള ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ആ ആവശ്യത്തിനായി നമ്മൾ ഫംഗ്ഷൻ മൂല്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഫംഗ്ഷൻ മൂല്യങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ അവയുടെ ഡെറിവേറ്റീവുകളും ആ സർഫസ് ലഭിക്കുന്നതിന് വ്യത്യസ്ത പോയിന്റുകളിൽ ചെയ്യാൻ ശ്രമിക്കുന്നു കൂടാതെ മെട്രിക്സ് എത്രത്തോളം മിനുസമാർന്നതാണെന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ സർഫസ്കൾ നിർമ്മിക്കാൻ പോകുന്നു സർഫസ്കൾ നിർമ്മിക്കുന്നതിനുള്ള മറ്റ് മാർഗ്ഗങ്ങളുണ്ട് അവയെ ബെസിയർ കർവുകൾ ബെസിയർ സർഫസ്കൾ എന്ന് വിളിക്കുന്നു അതിൽ നമ്മൾക്ക് പി 1 പി 2 പി 3 പി 4 പോലുള്ള പ്രത്യേക ഡാറ്റാ പോയിന്റുകൾ ഉണ്ട് ഈ ഡാറ്റാ പോയിന്റുകളിൽ നമ്മൾ നേരിട്ട് ചേർക്കില്ല ഈ ഡാറ്റാ പോയിന്റുകൾക്കിടയിൽ യോജിക്കുന്ന ചില പോളിഗണുകൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഈ പോളിഗണുകളെ നമ്മൾ ചേർക്കുമ്പോൾ ഈ പോളിഗണുകളെ മറികടന്ന് കടന്നുപോകുന്ന ഏത് കർവിനെയും അതിനെ ബെസിയർ കർവുകൾ എന്ന് വിളിക്കുന്നു പാരാമെട്രിക് വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ പി ഏത് പോയിന്റും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ആ കർവിൽ P i k i യുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കേണ്ട പാരാമെട്രിക് കർവ് ഇവിടെ k 1 k 2 k 3 k 4 ന് ഈ ക്യൂബിക് ഇന്റർപോളേഷനുകൾ ഉണ്ട് അതിനാൽ t നമ്മുടെ പാരാമെട്രിക് വേരിയബിളാണ് നമ്മുടെ യു ഒരു ക്യൂബിക് പോളിനോമിയൽ ഒരു ക്യുബിക് ഒരു ക്യുബിക് വ്യത്യസ്ത തരം ഫോർമാറ്റുകളിൽ ഒരു ക്യൂബിക് നമ്മൾശ്രദ്ധാപൂർവ്വം ക്രമീകരിക്കാൻ പോകുന്നു അതിനാൽ ഈ പ്രത്യേക പോളിനോമിയൽ കർവ് ശരിക്കും കടന്നുപോകുന്ന പോളിഗണുകൾ നിർമ്മിക്കാൻ ആകും നമ്മൾ അത് ചെയ്യാൻ പോകുകയാണെങ്കിൽ അത്തരം വളവുകളെ നമ്മൾ ബെസിയർ കർവുകൾ എന്ന് വിളിക്കുന്നു ഇവയാണ് ഏറ്റവും ജനപ്രിയമായ പ്രതിപാദന വളവുകൾ അത്തരം കർവുകൾ വരയ്ക്കുമ്പോൾ ആ മിനുസമാർന്ന കർവ് നിർമ്മിക്കാൻ നമ്മൾക്ക് 4 പോയിന്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഉദാഹരണത്തിന് നമ്മൾക്ക് പോയിന്റ് പി 1 പി 2 പി 3 പി 4 ഉണ്ട് ഇതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഒരുപക്ഷേ ഞാൻ ഒരു വരി പോലെ നിർമ്മിക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷേ ഞാൻ ഒരു സ്പ്ലൈൻ പോലെയുള്ള ഒന്ന് നിർമ്മിക്കുന്നു ഏറ്റവും മികച്ച പ്രാതിനിധ്യം ഈ ബെസിയർ പ്രാതിനിധ്യത്തിനൊപ്പം പോകുക എന്നതാണ് അതിലൂടെ ഈ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമ്മൾ ഒരു കർവ് നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും മിക്ക ഗ്രാഫിക്സ് എഡിറ്റർമാരും നമ്മൾ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ശരിക്കും വളവുകൾ വരയ്ക്കാനും അവ റെൻഡർ ചെയ്യാനും ഈ ബെസിയർ കർവുകളിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ അത് ത്രിമാന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇത് 4 ഡാറ്റ പോയിന്റുകളാണ് ഇത് ആദ്യ ഡാറ്റയാണ് നമ്മൾക്ക് ആദ്യം അതിൽ ഒരു ബെസിയർ കർവ് നിർമ്മിക്കാം അതുപോലെ നമുക്ക് ഒന്നാമത്തെ പോലെ മറ്റു മൂന്ന് ഡാറ്റാ പോയിൻ്റുകളും കാണുംഒരുപക്ഷേ രണ്ടു താഴെയും മൂന്ന് നാല് എന്നിങ്ങനെയുള്ള മറ്റ് ഡാറ്റാ പോയിന്റുകളും ഉണ്ടായിരിക്കും പിന്നീട് മറ്റൊരു ബെസിയർ കർവ് വരക്കും അതുപോലെ മറ്റൊരു ബെസിയർ കർവ് മറ്റൊരു ബെസിയർ കർവ് സമാനമായി മറ്റ് ദിശകളിൽ നമ്മൾക്ക് 4 ഡാറ്റ പോയിന്റുകളുണ്ട് അതിനാൽ ഒരു സർഫസിൽ ഒരു ബെസിയർ കർവ് ആ രീതിക്ക് ചെയ്യുക അതിനാൽ ആ വസ്തുവിൽ ഒരു സ്വതന്ത്ര സർഫസ് നിർമ്മിക്കാൻ നമ്മൾക്കാകും 16 ഡാറ്റാ പോയിന്റുകൾ അറിയുന്നതിലൂടെ നമ്മൾക്ക് വളരെ മിനുസമാർന്ന ഒരു സർഫസ് നിർമ്മിക്കാൻ കഴിയും നമുക്ക് ശ്രദ്ധാപൂർവ്വം നോക്കാം ഡാറ്റ പോയിൻ്റ് നമ്മുടെ പക്കലുള്ളത് 1 2 3 4 ആണ് അതുപോലെ 1 ഒരു പക്ഷേ 2 3 4 ചുവടെ 5 ഉം മറ്റും ഇവയാണ് നമ്മൾക്ക് ഉള്ള ഡാറ്റ പോയിന്റുകൾ ഇപ്പോൾ ഒരു സർഫസ് നിർമ്മിക്കേണ്ടതുണ്ട് കാരണം ഈ ഡാറ്റാ പോയിന്റുകൾ ചിതറിക്കിടക്കുന്നു ഒരാൾക്ക് ആ സർഫസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗ്ഗമെന്താണ് ഈ ആവശ്യത്തിനായി ഈ ബെസിയർ കർവ് തത്ത്വങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുറഞ്ഞത് 16 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇത് സുഗമമായ സർഫസ് നിർമ്മിക്കാൻ കഴിയും ഈ 4 പോയിന്റുകളും സംയോജിപ്പിക്കുന്നത് വരെ സർഫസ്കളെപ്പോലെ കർവ് തന്നെ നിലവിലില്ല അതിനാൽ എന്താണ് ആ കർവ് ഇല്ലാത്തത്ഈ വിഭിന്നമായ ഡാറ്റാ പോയിന്റുകൾ അവിടെ നിന്ന് നമ്മൾ അത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു പ്രാതിനിധ്യത്തിന്റെ മറ്റൊരു മാർഗ്ഗംഈ ഡാറ്റാ പോയിന്റുകൾ ബി സ്പ്ലൈനുകൾ എന്ന് വിളിക്കുന്ന സർഫസ്കൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു ഇത് ബേസിസ് സ്പ്ലൈൻസ് ടെക്നിക് എന്നും വിളിക്കുന്നു കാരണം ഇത് ഒരു ഡ്രോയിംഗ് കോഴ്സായതിനാൽ ഈ വളവുകളുടെ ഗണിതശാസ്ത്ര രൂപവത്കരണത്തിലേക്ക് നമ്മൾ വളരെയധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മറിച്ച് ഏത് തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള വളവുകളാണ് നല്ലതെന്നതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിസ് സ്പ്ലൈൻ ടെക്നിക്കുകളിൽ ഏതെങ്കിലും ക്യൂബിക് പോളിനോമിയലുകൾക്ക് പകരം നമ്മൾ പോളിഗണുകൾ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഏതെങ്കിലും ക്യൂബിക് പോളിനോമിയലുകൾ ഉപയോഗിക്കുന്നതിനുപകരം നമുക്ക് ഈ പോളിഗണുകൾ ലഭിക്കാൻ പോകുകയാണെങ്കിൽ അതിനെ ബേസിസ് സ്പ്ലൈനുകൾ എന്ന് വിളിക്കുന്നു ബി സ്പ്ലൈൻ എന്ന പദം ഐസക് ജേക്കബ് ഷോൻബെർഗ് ഉപയോഗിച്ചതാണ് ഇത് ബേസിസ് സ്പ്ലൈൻ എന്നതിന്റെ ഹ്രസ്വ പ്രാതിനിധ്യമാണ് ഓർഡർ എൻ ന്റെ ഒരു സ്പ്ലൈൻ ഫംഗ്ഷൻ വേരിയബിൾ സൂചിക x ലെ ഡിഗ്രി n 1 ന്റെ ഒരു പീസ് പോളിനോമിയൽ ഫംഗ്ഷനാണ് പീസുകൾ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളെ നോട്ട്സ് എന്ന് വിളിക്കുന്നു നോട്ട്സിന്റെ ഗുണിതത്തെ ആശ്രയിച്ച് അവയും അവയുടെ ഡെറിവേറ്റീവുകളും തുടർച്ചയായിരിക്കാം എന്നതാണ് സ്പ്ലൈൻ ഫംഗ്ഷനുകളുടെ പ്രധാന പ്രത്യേകത ഈ നോട്ട്സ് എത്ര സങ്കീർണമാണ് സുഗമമായ വളവുകളുണ്ടായിരിക്കണ്ടതാണ് നമ്മൾ ബെസിയർ കർവുകൾക്കായി ഉപയോഗിച്ചതുപോലുള്ള ക്യൂബിക് പോളിനോമിയലുകൾ പോലുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ പോളിഗണുകൾ ഉപയോഗിക്കുന്നു ഈ പോളിഗോണുകൾ ശ്രദ്ധാപൂർവ്വം ക്രമീകരിക്കുന്നതിലൂടെ നമ്മൾക്ക് സർഫസ് നിർമ്മിക്കാൻ ആകും ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ ഡാറ്റ പോയിന്റുകൾ ഉണ്ട് എനിക്ക് ശരിക്കും ചേർക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള പോളിഗൺ ഒരു വാൽ പോലെ ആണ് ചതുരാകൃതിയിലുള്ള വാൽ എന്നിവ എനിക്ക് ശരിക്കും നിർമ്മിക്കാം അല്ലെങ്കിൽ ഒരു റോമ്പസ് ഒരുപക്ഷേ എനിക്ക് ശരിക്കും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ത്രികോണം പോലെയാണ് അതിനാൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു സർഫസ് നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ആ ബഹുഭുജങ്ങളെ നിയന്ത്രിക്കുന്നതിനെ അടിസ്ഥാനമാക്കി അത് ഷഡ്ഭുജം ഡോഡെകഹെഡ്രോണുകൾ എന്നിങ്ങനെയുള്ളവ ആകാം നല്ലൊരു സർഫസ് നിർമ്മിക്കാനുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഓർഡർ n ന്റെ ബി സ്പ്ലൈനുകൾ ഒരേ നോട്ടിന് മുകളിൽ നിർവചിച്ചിരിക്കുന്ന അതേ ഓർഡറിനായുള്ള സ്പ്ലൈൻ ഫംഗ്ഷനുകൾക്കായുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ അതായത് സാധ്യമായ എല്ലാ സ്പ്ലൈൻ ഫംഗ്ഷനുകളും ബി സ്പ്ലൈനുകളുടെ ഒരു ലീനിയർ സംയോജനത്തിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയും ഒരു ലീനിയർ ഫംഗ്ഷനായി നിങ്ങൾക്ക് ഇത് ശരിക്കും ചേർക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രയോജനം ഈ ബി സ്പ്ലൈനുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടമാണിത് കൂടാതെ ഓരോ സ്പ്ലൈൻ ഫംഗ്ഷനും ഒറ്റ കോമ്പിനേഷൻ മാത്രമേയുള്ളൂ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ ആ സർഫസ് നിർമ്മാണത്തിൽ ഒരു ഗുണിതവും ഉണ്ടാകില്ല നിങ്ങൾക്ക് ആ അതുല്യമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് കപ്പൽ പള്ള പോലെ നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സാധാരണയായി ഈ ബി സ്പ്ലൈൻ സർഫസ്കൾ വളരെ ജനപ്രിയമാണ് നിങ്ങൾ ഏതെങ്കിലും ക്യാഡ് സോഫ്റ്റ്വെയർ തുറക്കുകയാണെങ്കിൽ അത് സോളിഡ് വർക്കുകളായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോക്യാഡ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഓപ്പൺ GL ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഇവ ബി സ്പ്ലൈനുകൾ അല്ലെങ്കിൽ ബെസിയർ കർവുകൾ അല്ലെങ്കിൽ ഹെർമൈറ്റ് ബേസിസ് ഫംഗ്ഷനുകൾ എന്നിവയിലൂടെ ഇത് ശരിക്കും ഇന്റർപോളേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗോർഡൻ സർഫസ് ആണ് മറ്റൊരു തരം പ്രാതിനിധ്യം അതിനാൽ ഇത്തരത്തിലുള്ള ഗോർഡൻ സർഫസ്നെ ഫ്രീഫോം സർഫസ് മോഡലിംഗ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് ശരിക്കും വലിച്ചിടാൻ കഴിയുന്ന ഡാറ്റാ പോയിന്റുകൾ ഉണ്ട് അതിനാൽ സർഫസ് സ്വാഭാവികമായും ആ ക്യാഡ് സോഫ്റ്റ്വെയർ ക്രമീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ജി 1 ജി 2 കർവുകളുടെ ഒരു ശൃംഖല ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ഞാൻ ഇതുപോലൊന്ന് പറയുന്നത് ഒരു കർവാണ് നിങ്ങൾക്ക് മറ്റൊരു കർവുമുണ്ട് നിങ്ങൾക്ക് മറ്റൊരു കർവുമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇവിടെയും അവിടെയും ഒറ്റപ്പെട്ട ഡാറ്റാ പോയിന്റുകൾ ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ക്യാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ മൌസ് ഇവിടെയും അങ്ങോട്ടും നീക്കാൻ നിങ്ങൾക്ക് ഡാറ്റാ പോയിന്റുകളിലൊന്ന് തിരഞ്ഞെടുക്കാം അതിനാൽ നിങ്ങൾ കാണാൻ തുടങ്ങുന്ന സർഫസ് വ്യതിയാനങ്ങൾ അതുപോലെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ സർഫസ് എല്ലാ പോയിന്റുകളിലേക്കും വലിച്ചിടുക സുഗമമായ സർഫസ് ലഭിക്കാൻ നന്നായി മാപ്പു ചെയ്തു അത്തരത്തിലുള്ള പ്രതലങ്ങളെ നമ്മൾ ഗോർഡൻ സർഫസ് എന്ന് വിളിക്കുന്നു ഇത് നിങ്ങളുടെ ജി 1 കർവ് ജി 2 കർവുകൾ അതുപോലെ ജി 1 ജി 2 കർവുകൾടെ വിഭജനം എന്നിവ ഒരു നിശ്ചിത ബ്ലെണ്ടിംഗ് ഫംഗ്ഷനെ തൃപ്തിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഈ സർഫസ്കളിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമുള്ളത് പോലെ നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ സിലിണ്ടർ നിർമ്മിക്കുന്നത് പോലെ അവിടെ മഫ്ലറുകൾ ഉണ്ടാകും ഈ പൈപ്പ്ലൈൻ ഘടനകളിലെ പെട്ടെന്നുള്ള മാറ്റം അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ശരിക്കും നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പ മാർഗം ഈ ഗോർഡൻ പ്രതലങ്ങളാണ് ഇവിടെ അത്തരത്തിലുള്ള ഒബ്ജക്റ്റ് കാണിക്കുന്നു ഒരു സിലിണ്ടർ നല്ല സർഫസ് പോലെയുള്ള ഒന്ന് പെട്ടെന്ന് വരുന്നു അവിടെ ഒരു വീക്കം സംഭവിക്കുന്നു അവിടെ ഒരുതരം കുഴിയും ഉണ്ട് അതിനാൽ ഒരു നല്ല കർവ് ഉൾക്കൊള്ളിക്കൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിലൂടെ അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ ബയോമെഡിക്കൽ ഫീൽഡിൽ നിങ്ങളുടെ തുടയെല്ല് അല്ലെങ്കിൽ അസ്ഥി ഘടനകൾ ഇവ വളരെ മിനുസമാർന്ന വളവുകളാൽ വിവരിക്കപ്പെട്ടവയല്ല ഈ അസ്ഥികളിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാം അത്തരം വസ്തുക്കളെ പുനർനിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഗോർഡൻ സർഫസ്കൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മികച്ച മാർഗം ഇടുപ്പ് അസ്ഥിയുടെ സന്ധി വൃത്താകൃതിയിലായിരിക്കണമെന്നില്ല ഇതിന് ചില പ്രത്യേക വളവുകൾ ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്യാമറകളിലൂടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഡാറ്റാ പോയിന്റുകൾ ഉണ്ടാകും അത് പുനർനിർമ്മിക്കാനും ആ മുഴുവൻ ഡാറ്റയും നിങ്ങളുടെ 3ഡി പ്രിന്റിംഗ് ഒബ്ജക്റ്റിലേക്ക് കൈമാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ ഗോർഡൻ സർഫസ്കൾ നിർമ്മിച്ച് കമ്പ്യൂട്ടറിലേക്കോ ആ മെഷീൻ ഘടകത്തിലേക്കോ ഈ രീതിയിൽ പ്രിന്റുചെയ്യാൻ നിങ്ങൾ ആ പിക്സൽ വിവരങ്ങൾ ഉപയോഗിക്കുന്നു ഈ ആവശ്യത്തിനായി ഇത്തരം ഗോർഡൻ സർഫസ്കൾ ഉപയോഗിക്കും പ്രത്യേകിച്ചും ജെറ്റ് എഞ്ചിൻ കുഴലുകൾക്കും ചില തടസ്സങ്ങൾ സംഭവിക്കുന്ന മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ഗോർഡൻ സർഫസ്കൾ ഉപയോഗിക്കുന്നു മറ്റ് തരത്തിലുള്ള സർഫസ്കൾ കൂൺസ് പ്രതലങ്ങളാണ് പ്രത്യേകിച്ചും ബൌണ്ടറി തുറന്നിരിക്കുമ്പോൾ ബി സ്പ്ലൈനുകൾ അല്ലെങ്കിൽ ബേസിസ് സ്പ്ലൈനുകൾ ജനപ്രിയമാണ് നിങ്ങൾക്ക് വിഭിന്നമായ ഡാറ്റ പോയിന്റുകളുണ്ട് എന്നാൽ ഈ വിഭിന്നമായ ഡാറ്റാ പോയിന്റുകൾ ഒരു അതിർത്തിയും സൃഷ്ടിക്കുന്നില്ല ആ ഒബ്ജക്റ്റിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ നിങ്ങൾ ബി സ്പ്ലൈനുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഈ ഡാറ്റ ഒരു പ്രത്യേക തരത്തിലുള്ള അതിർത്തിയിലാണെങ്കിൽ നമ്മൾ ഈ കൂൺസ് സർഫസ്കൾ ഉപയോഗിക്കുന്നു ഈ കൂൺസ് സർഫസ്കൾ മികച്ച കണക്കുകൂട്ടൽ ആണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് രംഗത്തെ പ്രശസ്ത കണ്ടുപിടിത്തക്കാരൻ ആണ് കൂൺസ് എംഐടിയിലെ പ്രൊഫസറായ അദ്ദേഹം എഞ്ചിനീയർമാർക്കായി ഈ ഡിസൈൻ ടൂളുകൾ നിർമ്മിക്കുന്നതിൽ ധാരാളം സമയം ചെലവഴിച്ചു അതിനാൽ ഇവിടെ എന്തോ ഒന്ന് ഒരു സംഗ്രഹത്തിൽ നമുക്ക് ഈ കർവ് അല്ലെങ്കിൽ ആ പ്രത്യേക കർവിലെ ഡാറ്റാ പോയിന്റുകളും അതിരുകൾ രൂപപ്പെടുത്തുന്നവയുമുണ്ട് ഈ ഡാറ്റാ പോയിന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള മികച്ച മാർഗ്ഗമെന്താണ് നമ്മൾക്ക് ഒരു വിവരവുമില്ലാത്ത ഒരു സർഫസിനുള്ളിൽ നമ്മുടെ പക്കലുള്ളത് അതിർത്തി വിവരങ്ങൾ മാത്രമാണ് ആ സർഫസ് നിർമ്മിക്കാൻ എനിക്ക് ഏറ്റവും നല്ല മാർഗം ഏതാണ് ഇത് കാഴ്ചക്ക് വളരെ മനോഹരമായി കാണപ്പെടുന്നു പക്ഷേ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇതിന് ഗണിതശാസ്ത്ര നൈപുണ്യം ആവശ്യമാണ് അതിനാൽ ഏതൊരു ക്യാഡ് സോഫ്റ്റ്വെയറും അത്തരം പശ്ചാത്തലങ്ങൾ നിർമ്മിക്കുന്നതിന് ആ പശ്ചാത്തല പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മറ്റ് സർഫസ്കൾ സുഗമമായി ചേരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തരം സമ്മിശ്രമായ പാരാമീറ്ററൈസേഷനാണ് കൂൺസ് പാച്ച് കൂടാതെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഉപയോഗങ്ങളിൽ പ്രത്യേകിച്ചും ഫൈനൈറ്റ് ഇലമൻ്റ് രീതിയിലും അതുപോലെ ബൌണ്ടറി ഇലമൻ്റ് രീതികളിലും ഡൊമെയ്നുകളുടെ പ്രശ്നങ്ങൾ ഘടകങ്ങളിലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കൂൺസ് സർഫസ്കൾ വളരെ ജനപ്രിയമാണ് അതിനാൽ ഫീൽഡുകൾ മനസിലാക്കാൻ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് ചില ഗണിത പ്രക്രിയകളുണ്ട് അവയെ നമ്മൾ ഫൈനൈറ്റ് എലമൻ്റ് രീതികൾ എന്ന് വിളിക്കുന്നു ഈ പ്രത്യേക കാര്യങ്ങളിലൊന്നിൽ നിങ്ങൾക്ക് അതിർത്തി വ്യവസ്ഥകളുണ്ട് ഒരുപക്ഷേ നിങ്ങൾ ശരിക്കും ഒരു മിനുസമാർന്ന സർഫസ്നെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ ഈ കൂൺസ് സർഫസ് ഉപയോഗിക്കുന്നു മെഷിംഗ് പോലും ആ ചിത്രത്തിലേക്ക് സൂം ചെയ്യുന്നുണ്ടാകാം ഈ കൂൺസ് സർഫസ്കൾ എല്ലായ്പ്പോഴും സഹായകരമാകും കൂടാതെ ഈ കൂൺസ് പ്രതലങ്ങളിൽ ആളുകൾ ഒരു കൂട്ടിചേർക്കൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഈ സർഫസ്കൾ മൃദുവാക്കാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾ സൂം ചെയ്യുകയാണെങ്കിൽ പോലും പിക്സൽ വ്യതിയാനം യഥാർത്ഥത്തിൽ വ്യത്യാസപ്പെടരുത് ആളുകൾ അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു അതിനായി ബൈലീനിയർ അതുപോലെ ബൈക്യുബിക് ഇന്റർപോളേഷനുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ കാണുന്നത് അടിസ്ഥാനപരമായി എഞ്ചിൻ കുഴലാണ് വിമാനങ്ങൾ ജെറ്റ് എഞ്ചിനുകൾ നിങ്ങൾക്ക് ജെറ്റ് എഞ്ചിനുകൾ പോലെയുള്ള ഒന്ന് ഉണ്ടാകും അത് വായു വലിച്ചെടുത്ത് ഇന്ധനം ഇട്ട് അത് കത്തിച്ചാൽ എക്സ്ഹോസ്റ്റ് പുറത്തുവരുംഅതാണ് എഞ്ചിന്റെ ഊർജ്ജം അതിനാൽ ഈ നാളങ്ങൾക്ക് എല്ലായ്പ്പോഴും ചില പ്രത്യേക രൂപങ്ങളുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആ ദിശയിൽ വളയുകയും തിരിയുകയും ചെയ്യുന്നത് കാണാം അത്തരം സർഫസ് നിർമ്മാണത്തിനായി ഈ കൂൺസ് സർഫസ്കൾ വളരെ ജനപ്രിയമാണ് അതിനാൽ ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ വളവുകൾ ഉള്ളപ്പോൾ വളരെ തീവ്രമായ കാര്യങ്ങൾ നേടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത അരികുകൾ ഈ തീവ്രമായ അരികുകൾ എല്ലായ്പ്പോഴും അൽപ്പം ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഇത് വട്ടത്തിൽ ആക്കാൻ താൽപ്പര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആ പ്രതലങ്ങളെ ഫില്ലറ്റ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു പ്ലേറ്റ് ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റ് ഉണ്ട് വീണ്ടും മറ്റൊന്നിൽ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ തീവ്രമായ കോണുകളുണ്ട് നമ്മൾക്ക് തീവ്രമായ കോണുകൾ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് ആ സർഫസ് നീക്കംചെയ്യാൻ ശ്രമിക്കുന്നു അതിനെ മിനുസമാർന്നതുപോലെയാക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ചതുരാകൃതിയിലുള്ള ഭാഗത്ത് നമുക്ക് മിനുസമാർന്ന കോണുകളുണ്ട് തീവ്രമായ കോണുകൾ കാരണം നമ്മൾ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കാരണം ഇത് നമ്മളുടെ ഉൽപാദനക്ഷമതയെയോ അല്ലെങ്കിൽ ദോഷമായി ബാധിച്ചേക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ പോറലുകൾ ഉള്ള സർഫസ് നിലനിർത്താൻ പ്രയാസമാണ് അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും അതിനെ റൌണ്ട് ചെയ്യുന്നു അത്തരം കാര്യങ്ങളെ നമ്മൾ ഫില്ലറ്റ് സർഫസ്കൾ എന്ന് വിളിക്കുന്നു മറ്റ് രണ്ട് സർഫസ്കളുടെ അരികുകളെ ബന്ധിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു കോണാണ് ഫില്ലറ്റ് സർഫസ് എന്ന് പറയും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നിങ്ങൾ ഒരു റേഡിയസ് ഓഫ് കർവേചർ തിരഞ്ഞെടുക്കുകകേന്ദ്രം അവിടെ നിന്ന് ഈ വളവുകളിലേക്ക് ഒരു ടാൻജെന്റായി ചേരുന്നതിന് നിങ്ങൾ ഒരു നോക്ക് വരയ്ക്കുകയും ശേഷിക്കുന്ന മെറ്റീരിയൽ നീക്കം ചെയ്യുകയും ആ വിവരങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഫില്ലറ്റ് സർഫസ് ലഭിക്കും ഇവിടെ നമ്മൾക്ക് മറ്റൊരു തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ട് നിങ്ങൾക്ക് ഈ ചതുരാകൃതിയിലുള്ള പ്ലേറ്റ് ഉണ്ട് നിങ്ങൾ ഈ മിനുസമാർന്ന സർഫസ് നിർമ്മിക്കാനും ഈ ഭാഗങ്ങളിലേക്ക് ചേർക്കാനും ശ്രമിക്കുന്നു അതിനെയാണ് നമ്മൾ ഫില്ലറ്റ് സർഫസ് എന്ന് വിളിക്കുന്നത് അതുപോലെ നമുക്ക് ഇത് നോക്കാം ഒരുപക്ഷേ നിങ്ങൾ ഓട്ടോമൊബൈൽ കാർ വിൻഡ് ഷീൽഡുകൾ ഒബ്ജക്റ്റുമായി നന്നായി വിന്യസിക്കേണ്ടതുണ്ട് ഇത് തീവ്രമായ വ്യത്യാസമായിരിക്കരുത് അതിനായി നമ്മൾ ഫില്ലറ്റ് സർഫസ്കൾ ഉപയോഗിക്കുന്നു നിങ്ങൾ ഈ ഫില്ലറ്റ് സർഫസ്കൾ ഉപയോഗിക്കാൻ പോകുമ്പോഴെല്ലാം ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന ബി സ്പ്ലൈൻ സർഫസ്കളാണ് ജനപ്രിയ രീതി അവ ഒരു പോയിന്റിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്ക് നന്നായി മാപ്പുചെയ്യപ്പെടും അതുപോലെ ഒരു ക്യാഡ് സോഫ്റ്റ്വെയറിൽ ഓഫ്സെറ്റ് സർഫസ്കൾ എന്ന് പേരിട്ടിരിക്കുന്ന മറ്റ് പലതരം സർഫസ്കളും നമ്മൾ ഉപയോഗിക്കുന്നു ഒരു സർഫസ്വുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഓഫ്സെറ്റ് സർഫസ് ഉണ്ട്സമാനമായ സർഫസ് ആണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് എനിക്ക് ഒരു സിലിണ്ടർ ഉണ്ട് അത്തരമൊരു കേന്ദ്രീകൃത സിലിണ്ടർ കൂടി ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ അതിനെ ഈ ഓഫ്സെറ്റ് സർഫസ്കൾ എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾക്ക് ആസ്ബറ്റോസ് ഷീറ്റ് ഉണ്ട് മേൽക്കൂര നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് സമാന്തര രീതിയിലാണ് അതിനെയാണ് നമ്മൾ ഇവിടെ ഓഫ്സെറ്റ് സർഫസ്കൾ എന്നും വിളിക്കുന്നത് അത് നോക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഒരു മാർഗ്ഗം ഈ കർവ്വോ സർഫസോ ആണ് നമ്മൾക്ക് ആദ്യം ഉള്ളത് ആ ദിശക്ക് നോർമൽ ആയി ഒരു സാധാരണ പോയിന്റ് നിർമ്മിക്കുക ഒരു പ്രത്യേക റേഡിയസ് ഉള്ള ഒരു വൃത്തം വരയ്ക്കുക ആ സർഫസ് എവിടെയാണെങ്കിലും അത് തിരഞ്ഞെടുക്കുക ഒരു പോയിന്റ് ഇവിടെയുണ്ട് ഒരു ഓഫ്സെറ്റ് ദൂരം റേഡിയസ് ആയുള്ള ഒരു സർക്കിൾ വരക്കുക ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ടാൻജെന്റ് വരയ്ക്കാൻ പോകുന്നു അതിനർത്ഥം നമ്മൾക്ക് ആ പോയിന്റുണ്ട് അതിനാൽ ഇപ്പോൾ ആ പോയിന്റുകൾ ചേർത്ത് ഒരു ഓഫ്സെറ്റ് സർഫസ് നിർമ്മിക്കുക ഏതൊരു ഓഫ്സെറ്റും ശരിക്കും നിർമ്മിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത് ആ കർവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ പ്രത്യേക കർവുകൾ ഉപയോഗിക്കുന്നു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ത്രിമാന ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദവും ഉണ്ട് അതിനെ നമ്മൾ ചാംഫർ എന്ന് വിളിക്കുന്നു ഒരു ചാംഫർ അടിസ്ഥാനപരമായി ഒരു പ്ലെയിനിലെ മെറ്റീരിയൽ നീക്കംചെയ്യുന്നു നമ്മൾ നേരിട്ട് ഒരു പ്രതലം പോലെ കട്ട് പോലുള്ള വസ്തുക്കൾ മുറിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നു ഉദാഹരണത്തിന് നമ്മൾ പ്ലാനർ കാഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 2 അളവുകളിലുള്ള വസ്തുവാണ് ഇതെന്ന് നമുക്ക് പരിഗണിക്കാം ആ മെറ്റീരിയൽ കട്ട് ശരിക്കും നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള അധിക മെറ്റീരിയൽ നീക്കംചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ചേംഫർ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇത് വട്ടത്തിൽ ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നമ്മൾ ഫില്ലറ്റ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് വാസ്തുവിദ്യാ കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കാം താജ്മഹലിനടുത്ത് ഒരു പ്രവേശന കവാടം വലിയ ഗോപുരം ഉണ്ട് നിങ്ങൾ ഈ കോളം നോക്കുകയാണെങ്കിൽ ഇവ വൃത്താകൃതിയിലുള്ള ടവറുകളല്ല ഇവ ഒരു പ്ലേറ്റ് പോലെയാണ് അടുത്ത പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇതുപോലത്തെ തീവ്രമായ വെട്ടൽ ഉണ്ടെങ്കിൽ അതിനെ ചാംഫെറിംഗ് എന്ന് വിളിക്കുന്നു വാസ്തുവിദ്യാ കാഴ്ചപ്പാട് കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം ലഭിക്കാനിടയുണ്ട് ആ ചാംഫർ പ്രതലങ്ങളിൽ ചിലതരം ചിത്രങ്ങൾ ഒട്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു വളഞ്ഞ പ്രതലത്തേക്കാൾ പരന്ന പ്രതലമാണ് വേണ്ടത് തുടർന്ന് നിങ്ങൾ ആ ചാംഫെറിംഗിനൊപ്പം പോകുന്നു അതിനാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സോളിഡ് വർക്കുകളെക്കുറിച്ച് മനസിലാക്കുകയും ആ ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ പരിശീലിക്കുകയും ചെയ്യും